നാം ഈ കോഴ്സിന്റെ അവസാന പ്രഭാഷണത്തിലേക്ക് എത്തിയിരിക്കുന്നു പൈത്തണിന്റെ കൂടുതൽ സവിശേഷതകൾ ഉണ്ട് എന്നാൽ അവയിൽ പലതും നമ്മൾ വിവരിച്ചിട്ടില്ല പകരം പൈത്തണിനെ ഒരു ലാംഗ്വേജ് ആയി പ്രതിഫലിപ്പിക്കാനും നിലവിലുള്ള ചില ലാംഗ്വേജുമായി താരതമ്യപ്പെടുത്താനും കുറച്ച് സമയമെടുക്കാം നിങ്ങൾക്ക് അവയുമായി പരിചയമില്ലെങ്കിലും മറ്റ് ലാംഗ്വേജുകളിൽ നിന്ന് വ്യത്യസ്തമായ പൈത്തണിന്റെ ചില വശങ്ങൾ എടുത്തുകാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല അവ മികച്ചതോ മോശമോ എന്ന് വാദിക്കുകയും ചെയ്യുന്നു ഈ കോഴ്സ് ചെയ്യാൻ നമ്മൾ എന്തിനാണ് പൈത്തൺ തിരഞ്ഞെടുത്തത് പല കാരണങ്ങളാൽ പ്രോഗ്രാമിംഗ് ആരംഭിക്കുന്നതിനുള്ള നല്ല ലാംഗ്വേജ് ആണ് പൈത്തൺ ഒരു കാരണം അതിന്റെ സിന്റാക്സ് വളരെ ലളിതവും ആ ലാളിത്യം വരുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുന്നത് ആരംഭിക്കാൻ നിങ്ങളുടെ കോഡ് എഴുതുന്നതിനു മുമ്പ് പേരുകൾ മുൻകൂട്ടി ഡിക്ലയർ ചെയ്യണമെന്നില്ല എന്ന വസ്തുത ആണ് നിങ്ങൾക്ക് പൈത്തൺ ഇന്റർപ്രെറ്ററിലേക്ക് ഉദാഹരണത്തിനായി പോകാം കൂടാതെ x എന്താണെന്നും y എന്താണെന്നും ആകുലപ്പെടാതെ പ്രസ്താവനകൾ എഴുതുന്നത് തുടരുക നിങ്ങൾ മുൻപോട്ടു പോകുമ്പോൾ മൂല്യങ്ങൾ നിർവചിക്കാനും അവ കൈകാര്യം ചെയ്യാനും കഴിയും ഇത് പ്രോഗ്രാമിംഗ് ആരംഭിക്കുന്നത് വളരെ സൌകര്യപ്രദവും വളരെ മനോഹരവുമാക്കുന്നു കാരണം അടിസ്ഥാന പ്രോഗ്രാമുകൾ എഴുതുന്നതിന് പോലും നിങ്ങൾ ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതില്ല ഒരു ലൂപ്പ് എപ്പോൾ ആരംഭിക്കുമെന്നും ഒരു if ബ്ലോക്ക് എപ്പോൾ ആരംഭിക്കുമെന്നും സൂചിപ്പിക്കുന്നതിന് ഇൻഡന്റേഷൻ ഉപയോഗിച്ച് പൈത്തൺ പ്രോഗ്രാമുകൾ സ്ഥാപിച്ചിരിക്കുന്ന രീതിയുണ്ട് ധാരാളം ചിഹ്നങ്ങളെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല കൂടുതൽ പരമ്പരാഗത ലാംഗ്വേജിന്റെ ഭാഗമായ ബ്രേസുകൾ ബ്രാക്കറ്റുകൾ സെമി കോളൻ എന്നിവ ഇത് വീണ്ടും ലാംഗ്വേജ് പഠിക്കാൻ അൽപ്പം എളുപ്പമാക്കുകയും പുതിയതായി വരുന്നയാൾക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും കഴിയുന്നു കുറച്ചുകൂടി സാങ്കേതികമായ മറ്റൊരു കാര്യം ഇതിനെപറ്റി ഈ പ്രഭാഷണത്തിൽ ഞാൻ കുറച്ചുകൂടി സംസാരിക്കും മ്യുട്ടബിൾ ഇമ്മ്യൂട്ടബിൾ എന്നിവ എന്താണെന്ന് മനസിലാക്കുന്നതിനപ്പുറം സ്റ്റോറേജിനെക്കുറിച്ച് നാം വിഷമിക്കേണ്ടതില്ല എന്നതാണ് നിങ്ങൾക്ക് x എന്ന പേര് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നു നമുക്ക് ഒരു ലിസ്റ്റ് l ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നു ഒരു ലിസ്റ്റ് l ലേക്ക് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അപ്പെൻഡ് എന്ന് നമ്മൾ പറയുന്നു സ്ഥലം എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടെ പോകുന്നു എന്നതിനെക്കുറിച്ചോ നമ്മൾ ഒരിക്കലും വിഷമിക്കുന്നില്ല ഇവയെല്ലാം പൈത്തണിന്റെ പ്ലസ് പോയിന്റുകളാണ് അപ്പോൾ മൈനസ് പോയിന്റുകൾ എന്തൊക്കെയാണ് അങ്ങനെ മോശമായ കാര്യങ്ങൾ പൈത്തണിൽ ഉണ്ടോ ആദ്യ കാര്യം ഡിക്ലറേഷൻസിന്റെ അഭാവം ആണ് ഡിക്ലറേഷൻസിന്റെ അഭാവം പലപ്പോഴും ഒരു നല്ല കാര്യം ആണ് നിങ്ങൾ പ്രോഗ്രാമിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ എഴുതുന്നതിനെ പറ്റി വിഷമിക്കേണ്ടതില്ല എന്നാൽ ഇത് ഒരു മോശം കാര്യമാണ് കാരണം പല പ്രോഗ്രാമിംഗ് പിശകുകളും ലളിതമായ ടൈപ്പിംഗ് തെറ്റുകളിൽ നിന്നാണ് വരുന്നത് പലപ്പോഴും നിങ്ങൾക്ക് X എഴുതണം പകരം ചിലപ്പോൾ നിങ്ങൾ Y എഴുതുന്നു ഇപ്പോൾ പൈത്തണിലാണ് നിങ്ങൾ y എഴുതുകയും X നായി ഉദ്ദേശിച്ച ഒരു മൂല്യം y ക്കു അസൈൻ ചെയ്യുകയും ചെയ്താൽ പൈത്തൺ അറിയില്ല നിങ്ങൾ x ആണ് ഉദ്ദേശിച്ചത് y അല്ല എന്ന് കാരണം വരുന്ന ഓരോ പുതിയ പേരും സന്തോഷത്തോടെ നെയിം ഫാമിലിയിലേക്ക് ചേർത്തു അത് നിങ്ങളുടെ പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നു ഇത്തരത്തിലുള്ള അക്ഷരത്തെറ്റുകൾ കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമാണ് കൂടാതെ നിങ്ങൾക്ക് ഡിക്ലറേഷൻസ് ഒന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ഡൈനാമിക് നെയിം അവതരണം ഉള്ളതിനാൽ ഈ പിശകുകൾ കണ്ടെത്തുന്നതിന് ഒരു പ്രോഗ്രാമർ എന്ന നിലയിൽ പൈത്തൺ നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്നു മറുവശത്ത് നിങ്ങൾ മുൻകൂട്ടി ഈ പേരുകൾ പ്രസ്താവിക്കുന്നു എങ്കിൽ C അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ജാവ പോലുള്ള മറ്റ് ലാംഗ്വേജുകളിൽ ചെയ്യുന്ന പോലെ അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ ഡിക്ലയർ ചെയ്യാത്ത ഒരു പേര് കണ്ടാൽ കമ്പൈലർ നിങ്ങളെ അറിയിക്കും ഈ പേര് മുൻപ് കണ്ടിട്ടില്ല എന്തോ ഒരു ഒരു കുഴപ്പമുണ്ട് എന്ന് തെറ്റായി ടൈപ്പ് ചെയ്താൽ ഡിക്ലറേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ അൺ ഡിക്ലയർഡ് നെയിം ആയി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അതേസമയം പൈത്തണിൽ അത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുകയും ആ പേരിന് ഒരു പുതിയ മൂല്യം സൃഷ്ടിക്കുകയും അതേ സമയം ഇപ്പോൾ രണ്ട് പേരുകൾ ഉണ്ടെന്ന് നടിക്കുകയും ചെയ്യും നിങ്ങൾ കരുതുന്നത് ഒന്നുമാത്രമേയുള്ളൂവെന്ന് ആണ് അങ്ങിനെ നിങ്ങളുടെ പിന്നീടുള്ള കോഡിലെല്ലാം പ്രവചനാതീതമായ പിശകുകൾ ഉണ്ടാകും ഇതിന്റെ മറ്റൊരു വശം ടൈപ്പിംഗ് ആണ് പൈത്തണിൽ നാമങ്ങൾക്ക് ടൈപ്പ് ഇല്ലെന്ന് നമ്മൾ കണ്ടു അവയ്ക്ക് അവയുടെ മൂല്യത്തിൽ നിന്നുള്ള ടൈപ്പ് മാത്രമേ ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ x ന് 5 നൽകാം പിന്നീട് x ഒരു സ്ട്രിംഗിന് നിയോഗിക്കാം പിന്നീട് x ഒരു ലിസ്റ്റ് ആക്കാം എങ്ങിനെ ആയാലും പൈത്തണിൽ പ്രശ്നമില്ല ഓരോ ഘട്ടത്തിലും x നിലവിലെ നിർവചിക്കപ്പെട്ട മൂല്യത്തിനനുസരിച്ച് നിയമപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഇത് വീണ്ടും നല്ലതാണ് സൌകര്യപ്രദമാണ് എന്നാൽ എവിടെയോ ഇതേ കാരണം കൊണ്ട് തന്നെ പിശകുകളിലേക്ക് നയിച്ചേക്കാം നിങ്ങൾ എക്സ് ഒരു ഇന്റീജർ ആണെന്നു ചിന്തിച്ചേക്കും എന്നാൽ പ്രോഗ്രാം പകുതി ആയപ്പോൾ അത് ഇന്റീജർ ആണെന്നു മറന്നു പോയി മറ്റൊരു ടൈപ്പ് മൂല്യം നൽകാൻ തുടങ്ങി X എല്ലായ്പ്പോഴും ഒരു പൂർണ്ണസംഖ്യയായിരിക്കണമെന്നു പൈത്തണിനെ നിങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ ഈ പേര് ഇന്റീജർ മൂല്യം മാത്രം ആയിരിക്കും സംഭരിക്കുക ഒരു കംപൈലർ ഒരു സംഖ്യ എന്ന നിലയിൽ അത് ആന്തരികമായി ചെയ്യും പിശകുകൾ പ്രധാനമായും വേരിയബിൾ നെയിമിലെ അക്ഷരപിശകുകൾ ആണ് അല്ലെങ്കിൽ പേരുകൾ തെറ്റി മറ്റു ടൈപ്പുകളിൽ ഉപയോഗിക്കും നിങ്ങൾ പേരുകൾ ഡിക്ലറേഷൻ ചെയ്താൽ കമ്പൈലറുകൾക്ക് ഈ രണ്ടു തെറ്റുകളും വളരെ എളുപ്പത്തിൽ പിടിക്കാം പൈത്തൺ ഇവ രണ്ടും കണ്ടുപിടിക്കാതെ ഇരുന്നാൽ ഇതെല്ലാം അവിടെ അവശേഷിക്കുന്നു പിശകുകൾ കൂടാൻ അവ കാരണമാകുന്നു ഈ പിശകുകൾ പിന്നീട് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ പേരുകൾ ചേർക്കുന്നതും വാല്യൂസ് കൊടുക്കുന്നതും അവരുടെ ടൈപ്പ് മാറ്റുന്നതും പ്രോഗ്രാമിങ്ങിന് ഒപ്പം തുടർന്നാൽ വലിയ പ്രോഗ്രാമുകൾ ഡീബഗ്ഗിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്നതാണ് വലിയ പ്രോഗ്രാമുകൾ എഴുതാൻ ശ്രദ്ധ ആവശ്യമാണ് കൂടാതെ ഡീബഗ്ഗിംഗ് വളരെ ബുദ്ധിമുട്ടാണ് ചർച്ച ചെയ്യാൻ ഉള്ള മറ്റ് ഭാഗം ഉണ്ട് കോഴ്സിന്റെ രണ്ടാം പകുതിയിൽ പറഞ്ഞ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആയ ക്ലാസ് ഒബ്ജെക്ട്സ് എന്നിവ ആണ് ആദ്യ കാര്യം ഡിക്ലറേഷൻസ് ഇല്ലാത്തതിന്റെ നേരിട്ട് ഉള്ള അനന്തരഫലമാണ് നെയിമിന് ഡാറ്റ ടൈപ്പ് ഉണ്ടെന്നു ഉറപ്പിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ഒരു ലിസ്റ്റ് ആയി എന്തെങ്കിലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അത് ഒരു ശൂന്യമായ ലിസ്റ്റ് ആയി ഡിക്ലയർ ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മൾ കണ്ടു l ഈക്വൽ റ്റു ഇത് എന്ന് എഴുതണം പിന്നീട് എനിക്ക് ഇതുമായി കൂട്ടിച്ചേർക്കാം ഞാൻ ചെയ്യുന്ന ലിസ്റ്റിലെ ആദ്യ അപ്പെൻഡ് അല്ലെങ്കിൽ ആദ്യ പ്രവർത്തനം നിയമപരമായിരിക്കണം അതിനായി ഇത് ഒരു ലിസ്റ്റ് ആണെന്ന് ഞാൻ പറയണം ഇത് ഏകദേശം ഡിക്ലറേഷൻ പോലെ തന്നെ ആണ് എന്നാൽ ഇത് ശരിക്കും ഒരു ഡിക്ലറേഷൻ അല്ല ഞാൻ യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ശൂന്യമായ ഒബ്ജക്റ്റ് സൃഷ്ടിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു ഡിക്ഷ്ണറി വേണമെങ്കിൽ ഇതുപോലുള്ള ഒരു പുതിയ പേര് നൽകണം D ഈക്വൽ റ്റു എംപ്റ്റി ഡിക്ഷ്ണറി എന്ന് എനിക്ക് പറയാനുണ്ട് ഒരു ടൈപ്പ് ഒബ്ജക്റ്റ് സൃഷ്ടിക്കാതെ ഒരു പേരിന് ആ ടൈപ്പ് നൽകാനുള്ള മാർഗമില്ല യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വരുന്ന പ്രശ്നമാണിത് ഉദാഹരണത്തിന് ഒരു ട്രീ ഒരു നോഡ് സൃഷ്ടിക്കാതെ തന്നെ ശൂന്യമായ ട്രീ നിർവചിക്കാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ടൈപ്പ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ ടി എന്ന പേര് ടൈപ്പ് ട്രീ ആണെന്ന് നിങ്ങൾക്ക് പറയാം എന്നിട്ട് നിങ്ങൾക്ക് ഈ മൂല്യം നൺ പോലെ ഉപയോഗിക്കാം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും അത്തരമൊരു മൂല്യമുണ്ട് അത് ശരിക്കും നിലവിലില്ലാത്ത ഒന്നിനെ സൂചിപ്പിക്കുന്നു ഈ ഒരു നൺ മാത്രമല്ല വേറെ ഒരുപാട് നൺ ഉണ്ട് ഈ പറയുന്ന സന്ദർഭത്തിൽ ഈ നൺ ടൈപ്പ് ട്രീയിലെ നൺ ആണ് പൈത്തൺ ഇത് ഉപയോഗിക്കുന്നു നൺ എന്ന ഒരു മൂല്യം മാത്രമേ ഉള്ളു നിങ്ങൾക്ക് നൺ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം എന്നാൽ അത് നൺ ആണെങ്കിൽ അതിനു ഒരു ടൈപ്പ് ഉണ്ടാകില്ല എന്നതാണ് വ്യത്യാസം പൈത്തണിൽ ഒരു പേരിനു നൺ മൂല്യം ഉണ്ടെങ്കിൽ അതിന് നിർവചനപ്രകാരം യാതൊരു ടൈപ്പും ഇല്ല എന്നാൽ ഡിക്ലറേഷൻസ് ഉണ്ടായിരുന്നു എങ്കിൽ ഒരു ടൈപ്പ് ഉണ്ടെന്നു പറയാം പക്ഷെ അതിനു ഒരു മൂല്യം ഉണ്ടാകില്ല ഇത് സാധാരണയായി ഒരു ശൂന്യമായ നോഡിനോ ശൂന്യമായ ട്രീക്കോ വേണ്ടതാണ് റിക്കേഴ്സീവ് ആയിട്ടുള്ള ട്രീ പര്യവേക്ഷണം മികച്ചതാക്കുന്നതിനായി ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മാർഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു അതിർത്തിയിൽ ശൂന്യമായ നോഡുകളുടെ ഒരു പാളി ചേർത്ത് നമ്മുടെ ട്രീയെ വിപുലീകരിച്ചു അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും എപ്പോൾ ആണ് ഒരു പാതയുടെ അവസാനത്തിലെത്തുക എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ഡിക്ലറേഷൻസ് ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് ഒഴിവാക്കാനാകും ഇപ്പോൾ മറ്റൊരു സവിശേഷതയാണിത് ടൈപ്പ് ഡിക്ലറേഷന്റെ അഭാവം പൈത്തണിൽ കാര്യങ്ങൾ അല്പം കൂടുതൽ സങ്കീർണ്ണമാക്കും പ്രോഗ്രാമിംഗിന്റെ തുടക്കത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല മറ്റൊന്ന് കൂടുതൽ ഗുരുതരമാണ് ശൂന്യമായ ഒബ്ജക്റ്റുകളുടെ പ്രാതിനിധ്യവുമായി ഇത് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഡിക്ലറേഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഒബ്ജെക്ടിൽ ആവശ്യമുള്ള പൊതുവും സ്വകാര്യവുമായ വേർതിരിവ് നടപ്പിലാക്കാൻ കഴിയില്ല ഒരു അബ്സ്ട്രാക്ട് ഡാറ്റാ ടൈപ്പിന്റെ ലക്ഷ്യം ഒരു പബ്ലിക് ഇന്റർഫേസ് അല്ലെങ്കിൽ ഒരു ഡാറ്റാ ടൈപ്പ് നിയമപരവും സ്വകാര്യമായി നടപ്പിലാക്കുന്നതുമായ ഒരു കൂട്ടം ഫംഗ്ഷനുകൾ ആയിരുന്നു ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്റ്റാക്ക് ഉണ്ടായിരിക്കും അത് നമ്മൾ ഒരു ലിസ്റ്റായി നടപ്പിലാക്കാം പക്ഷേ പോപ്പും പുഷും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അതേ പോലെ ഒരു ക്യൂ ഒരു ലിസ്റ്റ് ആയിരിക്കാം പക്ഷേ നമ്മൾ ഒരറ്റത്ത് ചേർക്കാനും എതിർ അറ്റത്ത് നീക്കം ചെയ്യാനും മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് ലിസ്റ്റിലെ പ്രവർത്തനവുമായി ആശയക്കുഴപ്പത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പെൻഡ് എക്സ്റ്റെൻഡ് തുടങ്ങിയ കാര്യങ്ങൾ വിവേചനരഹിതമായി ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇതിന്റെ മറ്റൊരു ഭാഗം ഡാറ്റ സ്വയം ആക്സസബിൾ അകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഒരു പോയിന്റ് p നൽകിയാൽ എനിക്ക് പുറത്തു നിന്ന് p ഡോട്ട് x p ഡോട്ട് y എന്നിവ ഉപയോഗിക്കാനും മൂല്യങ്ങൾ നേരിട്ട് അപ്ഡേറ്റ് ചെയ്യാനും കഴിയും എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം നാളെ എനിക്ക് x y പ്രാതിനിധ്യം R ആൻഡ് തീറ്റ യിലേക്ക് മാറ്റാൻ തോന്നാം നമുക്കു r തീറ്റ എന്നിവ ഉപയോഗിച്ച് നമ്മുടെ പോയിന്റ് പ്രതിനിധാനം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ നമ്മൾ x y എന്നിവ ഉപയോഗിക്കുന്ന സമയത്ത് പ്രോഗ്രാമർ പോയിന്റ് ഉപയോഗിക്കാൻ ആരംഭിക്കുകയും കോഡിന് പുറത്ത് നിന്ന് നേരിട്ട് p ഡോട്ട് x p ഡോട്ട് y എന്നിവ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്താൽ എന്താകും അത് ക്ലാസ് കോഡിനുള്ളിലാണെങ്കിൽ ക്ലാസ് പരിപാലകരെന്ന നിലയിൽ നമ്മൾ എവിടെയെല്ലാം പി ഡോട്ട് എക്സ് പി ഡോട്ട് വൈ എന്നിവ ഉപയോഗിച്ചിരുന്നോ അവിടെയൊക്കെ ഇപ്പോൾ നമ്മൾ പി ഡോട്ട് ആർ പി ഡോട്ട് തീറ്റ എന്നിവ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും ഇത് x y ൽ നിന്ന് r തീറ്റയിലേക്ക് മാറ്റുന്ന ഒരു ആന്തരിക കാര്യമാണ് ക്ലാസിലെ എല്ലാ കോഡുകളും ആന്തരികമായി r തീറ്റ ആയി അപ്ഡേറ്റ് ചെയ്യുന്നു x y എന്നിവയല്ല എന്നാൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും x y എന്നിവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഥവാ ഈ മൂല്യങ്ങൾ നിലവിലില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക പുറത്തുള്ള വ്യക്തിയുടെ കോഡ് പ്രവർത്തിക്കുന്നത് നിർത്തുന്നു കാരണം നമ്മൾ പോയിന്റിന്റെ ആന്തരിക ഇമ്പ്ലിമെന്റേഷൻ മാറ്റി ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നു ഇവിടെയാണ് പബ്ലിക് പ്രൈവറ്റ് എന്നിങ്ങനെ വേർതിരിക്കേണ്ടത് പ്രധാനമാകുന്നത് പോയിന്റിന്റെ സ്വകാര്യ ഇമ്പ്ലിമെന്റേഷനിലേക്ക് അവർക്ക് പ്രവേശനമില്ലെങ്കിൽ അവർക്ക് p ഡോട്ട് x p ഡോട്ട് y എന്നിവ ഉപയോഗിക്കാൻ കഴിയില്ല പുറത്ത് തന്നെ ഈ പ്രശ്നം ഒഴിവാക്കുന്നു നമുക്ക് ഒരു സ്റ്റാക്ക് ഒരു ലിസ്റ്റായി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും പബ്ലിക് ഇന്റർഫേസിൽ പുഷ് ചെയ്യാനും പോപ്പ് ചെയ്യാനും മാത്രമേ നമ്മൾ അനുവദിക്കൂ എന്ന് കരുതുക ഇത് ഒരു ലിസ്റ്റാണെന്ന വസ്തുത ഉപയോഗപ്പെടുത്തുന്ന ഒരാൾക്ക് നേരിട്ട് എന്തെങ്കിലും അവസാനം ചേർക്കാനും ഹീപ്പ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്റ്റാക്ക് പ്രോപ്പർട്ടി ലംഘിക്കാനും കഴിയും അതുകൊണ്ട് നമ്മൾ ഡാറ്റ സ്ട്രക്ച്ചർ തന്നെ മാറ്റേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കാരണം വ്യക്തി പ്രൈവറ്റ് ഇമ്പ്ലിമെന്റേഷൻ ചെയ്യാനായി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ നിയമപരമാകാം എന്നാൽ നമ്മൾ ഉപയോക്താവിന് നൽകുന്ന അബ്സ്ട്രാക്ട് ഡാറ്റാടൈപ്പുകളെ സംബന്ധിച്ച് ഇത് അനധികൃത പ്രവർത്തനങ്ങൾ ആയിരിക്കും ഇത് ഒഴിവാക്കാനുള്ള ചില വഴികളുണ്ട് ഇതിനായി ഈ പേരുകൾ പ്രൈവറ്റ് ആണെന്നും ഈ പേരുകൾ പബ്ലിക് ആണെന്നും പറയുക ഇപ്പോൾ പൈത്തണിൽ ഡിക്ലറേഷൻസ് ഇല്ല എന്നല്ല നിങ്ങൾ ഓർക്കുക പൈത്തണിൽ ഗ്ലോബൽ ഡിക്ലറേഷൻ ഉണ്ട് ഒരു ഫങ്ഷന്റെ ഉള്ളിൽ ഒരു ഇമ്മ്യുട്ടബിൾ വാല്യൂ എടുക്കാനും അത് പുറത്തുള്ള അതെ ഇമ്മ്യുട്ടബിൾ വാല്യൂ തന്നെ ആണെന്നും ഇത് പറയുന്നു പൈത്തൺ ഡിക്ലറേഷൻസ് അനുവദിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഡിക്ലറേഷൻസിനെ അനുവദിക്കാനും കാര്യങ്ങൾ കൂടുതൽ ഉപയോഗയോഗ്യമാക്കാനും കഴിയുന്ന മറ്റ് നിരവധി കാര്യങ്ങളുണ്ട് പക്ഷേ പൈത്തൺ ഇത് ചെയ്യുന്നില്ല ഇത് ഒരു ഉദാഹരണമാണ് ജാവ പോലെയുള്ള ലാംഗ്വേജുകളിൽ പ്രൈവറ്റ് പബ്ലിക് എന്നിങ്ങനെ പറയുന്ന ഡിക്ലറേഷൻസ് ഉണ്ട് ഇത് സങ്കീർണമായി തോന്നാമെങ്കിലും ഇമ്പ്ലിമെന്റേഷനെ ഇന്റർഫേസിൽ നിന്ന് വേർതിരിക്കാൻ അത് ശരിക്കും ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഒരു ഐഡിയൽ സാഹചര്യത്തിൽ ഇമ്പ്ലിമെന്റേഷൻ പൂർണ്ണമായും സ്വകാര്യമായിരിക്കണം നിങ്ങൾക്ക് ഒരിക്കലും x y എന്നിവ നേരിട്ട് കാണാൻ കഴിയില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് x വേണമെങ്കിൽ x മൂല്യം നൽകുന്ന get x എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം x മൂല്യം സജ്ജീകരിക്കണമെങ്കിൽ സെറ്റ് x എന്ന് വിളിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ഉപരിപ്ലവമായി ഇത് പി ഡോട്ട് X ഈക്വൽ റ്റു വി എന്നതിന് തുല്യമായി തോന്നാം വ്യത്യാസം യഥാർത്ഥത്തിൽ ഒരു x എന്ന മൂല്യം ഉണ്ടെന്നു നമ്മൾ അറിയുന്നില്ല എന്നതാണ് X എന്നാൽ നമുക്കു ഒരു അബ്സ്ട്രാക്ട് ആശയമാണ് x കോർഡിനേറ്റ് എന്നാൽ ഇത് നമുക്ക് സജ്ജമാക്കാൻ കഴിയുന്ന പോയിന്റിന്റെ പ്രോപ്പർട്ടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇത് എങ്ങനെ സജ്ജമാക്കുന്നു അത് ഈ ഫംഗ്ഷനിലൂടെയാണ് പ്രവർത്തനങ്ങൾ ഫങ്ഷന്റെ ഉള്ളിൽ Rതീറ്റ പ്രാതിനിധ്യം പോലെ സജ്ജീകരിച്ചാൽ X മൂല്യം മാറ്റുന്നതിനു ആനുപാതികമായി പരോക്ഷമായി r തീറ്റ എന്നിവ മാറും get x എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ x മൂല്യം വായിക്കുന്നില്ല r കോസ് തീറ്റ ആണ് ലഭിക്കുക ഒപ്പം സെറ്റ് x എന്ന് പറയുകയും ചെയ്താൽ അത് x ന്റെ മൂല്യം അനുസരിച്ച് r മാറ്റുകയും വീണ്ടും തീറ്റ കണക്കാക്കുകയും ചെയ്യും ഈ രീതിയിൽ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ ഈ ഫംഗ്ഷനുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് ഉള്ളിൽ ആശയപരമായ മൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ആശയപരമായ മൂല്യങ്ങൾ ഈ ഫംഗ്ഷനുകളിലൂടെ കൈകാര്യം ചെയ്യുന്നു ഇതിന്റെ യഥാർത്ഥ പ്രാതിനിധ്യം നമുക്ക് അറിയില്ല ഇതാണ് ഐഡിയൽ സാഹചര്യം എല്ലാം മറഞ്ഞിരിക്കുന്നു നമുക്ക് ഈ ഫംഗ്ഷനുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഓരോ ഡാറ്റാ ടൈപ്പിനും ഈ ഫങ്ഷൻസ് എപ്പോഴും ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഈ പ്രൈവറ്റ് പബ്ലിക് ഡിക്ലറേഷൻ നമുക്ക് ഉണ്ടായിരിക്കാനുള്ള കാരണം എല്ലായ്പ്പോഴും ഈ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൽ പ്രോഗ്രാമർസ് സന്തുഷ്ടരല്ല എന്നതാണ് ചിലപ്പോൾ അവർ നേരിട്ട് അസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർ ഡാറ്റ ടൈപ്പിന്റെ ചില ഭാഗങ്ങൾ പബ്ലിക് ആക്കാൻ താൽപ്പര്യപ്പെടുന്നു അപ്പോൾ പറയാം പി ഡോട്ട് x ഈക്വൽ റ്റു 7 എന്ന് എന്നാൽ പൊതുവെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നല്ല ശൈലി ഇതാണ് എല്ലാ ഇന്റേണൽ നെയിം വേരിയബിൾ എന്നിവ പ്രൈവറ്റ് ആക്കുക അവയിലേക്ക് നിയന്ത്രിത പ്രവേശനം മാത്രം അനുവദിക്കുക അത് വഴി ഉചിതമായ ഉപയോഗം ഉറപ്പാക്കുക ആന്തരിക പ്രാതിനിധ്യം മാറുകയാണെങ്കിൽ അവ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല നമ്മൾ x yൽ നിന്ന് r തീറ്റയിലേക്ക് മാറുകയാണെങ്കിൽ get x set x എന്നിവ ഇപ്പോഴും പ്രവർത്തിക്കും അതേസമയം p ഡോട്ട് x ശരിയാകില്ല ഈ രീതിയിൽ മൂല്യങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള മറ്റൊരു കാരണം ചിലപ്പോൾ വ്യക്തിഗത മൂല്യങ്ങൾ വ്യക്തിഗതമായി ആക്സസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് നമ്മൾ ഒരു തിയതി ഒരു തീയതിക്ക് സാധാരണയായി മൂന്നു കംപോണന്റ് ഫീൽഡ് ഉണ്ട് ദിവസം മാസം വർഷം എന്നിവ ഇവയ്ക്ക് അവരുടേതായ ശ്രേണികളുണ്ട് ഒരു മാസത്തെ സാധുവായ ദിവസങ്ങൾ 1 മുതൽ 31 വരെയും മാസങ്ങൾ 1 മുതൽ 12 വരെയുമാണ് എന്നാൽ എല്ലാ മാസത്തിനും 31 ദിവസമില്ല ഒരു ദിവസത്തിനും മാസത്തിനുമുള്ള സാധുവായ കോമ്പിനേഷൻ ഈ രണ്ട് അളവുകളെയും ആശ്രയിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഇത് വർഷത്തെയും ആശ്രയിച്ചിരിക്കുന്നു കാരണം ഇത് ലീപ്പ് ഇയർ അല്ലെങ്കിൽ ഫെബ്രുവരി 29 ഉണ്ടാകില്ല അതുകൊണ്ട് നമ്മൾ ദിവസം മാസം എന്നിവ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവ നിയമപരമായി അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഫെബ്രുവരി 15ൽ ആരംഭിക്കാൻ പോകുന്നു പിന്നീട് 15 മുതൽ 31 വരെ തീയതി മാറ്റാൻ പോകുന്നു ഇപ്പോൾ ഒരു ഫെബ്രുവരി 31 അനധികൃതതീയതി ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് മൂന്ന് ഫീൽഡുകൾ വെവ്വേറെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മൂന്ന് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നൽകുന്നതിന് പകരം മൂന്ന് മൂല്യങ്ങളും നൽകി തീയതി നിശ്ചയിക്കുന്ന ഒരു സംയോജിത അപ്ഡേറ്റ് പ്രവർത്തനം നടത്തുക എന്നതാണ് ഈ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ഓരോന്നോരോന്നായി ഫങ്ങ്ഷൻസ് നല്കാൻ ആഗ്രഹിക്കില്ല കാരണം മൂല്യങ്ങൾ തമ്മിലുള്ള ചില നിയന്ത്രണങ്ങൾ ഉണ്ട് അത് നിലനിർത്തണം അതിനു വേണ്ടി അവയുടെ ആക്സസ് നിയന്ത്രിക്കുന്നു നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ദിവസം മാസം എന്നിവ വെവ്വേറെ സജ്ജമാക്കാൻ കഴിയില്ല നിങ്ങൾ അവയെ ഒരുമിച്ച് സജ്ജീകരിക്കണം ഇമ്പ്ലിമെന്റേഷൻ പ്രൈവറ്റ് ആയി സൂക്ഷിക്കാൻ ഉള്ള മറ്റൊരു കാരണം ഇതാണ് നേരിട്ട് അപ്ഡേറ്റ് അനുവദിക്കാതെ മൂല്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വഴി നിയന്ത്രിക്കുക ഇപ്പോൾ നമുക്ക് സ്റ്റോറേജ് അലോക്കേഷനിലേക്ക് വരാം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേരുകളും മൂല്യങ്ങളും യഥാർത്ഥത്തിൽ എങ്ങിനെയാണ് മെമ്മറിയിൽ സംഭരിക്കുകയും അവ പരിശോധിക്കുകയും ചെയ്യുന്നത് പൈത്തണിൽ നാം പേരുകൾ പ്രോഗ്രാമിന്റെ ഗതി അനുസരിച്ച് വന്നു കൊണ്ടിരിക്കും അവയുടെ മൂല്യങ്ങൾ ഞൊടിയിടയിൽ മാറുന്നു പൈത്തണിനു മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ല ഈ X നു വേണ്ടി ഒരു ഇടം വേണമെന്ന് കാരണം ഇപ്പോൾ ഇത് ഒരു പൂർണ്ണസംഖ്യ ആകും എന്നാൽ നാളെ X ഒരു ലിസ്റ്റ് ആയേക്കാം ഏതൊക്കെ പേരുകളാണ് വരുന്നതെന്ന് അറിയുകയുമില്ല അങ്ങനെ പൈത്തൺ ഒരു ഡൈനാമിക് രീതിയിൽ എപ്പോഴും സ്ഥലം നൽകണം ഒരു നെയിം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനു വേണ്ട സ്ഥലം കൊടുക്കണം അത് മൂല്യം മാറ്റുകയോ ടൈപ്പ് മാറ്റുകയോ ചെയ്താൽ അതിനു വേണ്ട സ്ഥലവും മാറും അതേസമയം ഒരു സ്റ്റാറ്റിക് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അതായത് i ഒരു ഇന്റിജർ ജെ ഇന്റിജർകെ ഇന്റിജർ എന്നു പറഞ്ഞാൽ ഐജെ കെ എന്നിവക്ക് വേണ്ടി കമ്പൈലർ നേരിട്ട് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ചില സ്പേസ് മെമ്മറിയിൽ സംവരണം ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇത് അറേയുടെ കാര്യത്തിൽ പ്രയോജനപ്പെടുന്നു നമ്മൾ മുൻപത്തെ പ്രഭാഷണത്തിൽ ഒരു ലിസ്റ്റ് അറേ എന്നിവ തമ്മിലുള്ള വ്യത്യാസം പരാമർശിച്ചു സ്റ്റാറ്റിക് ഡിക്ലറേഷൻ സാഹചര്യത്തിൽ നൂറ് വലുപ്പമുള്ള ഒരു അറേക്കു വേണ്ടി യഥാർത്ഥത്തിൽ വിടവുകളില്ലാതെ തുടർച്ചയായ നൂറു മൂല്യങ്ങളുടെ ഒരു ബ്ലോക്ക് അനുവദിക്കും ഞാൻ ഈ അറേ നോക്കി എനിക്ക് ഏതു വാല്യൂ വേണമെങ്കിലും എടുക്കാം ആദ്യ വാല്യൂ അറിയാം എത്ര വാല്യൂ സ്കിപ് ചെയ്യണം എന്നും അറിയാം എങ്കിൽ ഇപ്പോൾ എനിക്ക് 75 ാമത്തെ മൂല്യം വേണമെങ്കിൽ എനിക്ക് ആദ്യത്തെ മൂല്യത്തിലേക്ക് പോയി ഈ മൂല്യങ്ങളെ മറികടന്ന് അവിടെയെത്തിയാൽ നേരിട്ട് 75 ാം മൂല്യം എവിടെയാണെന്ന് കണക്കാക്കാം ഇതിനെ ഒരു റാൻഡം ആക്സസ് അറേ എന്ന് വിളിക്കുന്നു ഇത് ആദ്യ വാല്യൂവിൽ നിന്ന് അവസാനം വരെ എത്താൻ കൂടുതൽ സമയം എടുക്കില്ല എന്നാൽ ലിസ്റ്റിൻെറ കാര്യത്തിൽ നമ്മൾ ഒബ്ജക്റ്റ് ബേസ്ഡ് ഇമ്പ്ലിമെന്റേഷനിൽ കണ്ടതുപോലെ ലിസ്റ്റിലെ i ത് ഘടകത്തിലേക്ക് പോകാൻ നമ്മൾ ഹെഡ് ൽ തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ പോകണം അത് അങ്ങനെ സ്ഥാനത്തിന് ആനുപാതികമായി സമയം എടുക്കും നമുക്ക് സ്റ്റാറ്റിക് അലോക്കേഷൻ ഉണ്ടെങ്കിൽ പൈത്തണിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രത്യേക റാൻഡം ആക്സസ് അറേകൾ നമുക്ക് നേടാനാകും ഇപ്പോൾ നമുക്ക് ഡിക്ലറേഷൻ ഉള്ളതുകൊണ്ട് എല്ലാം സ്റ്റാറ്റിക്ക് ആയി ഡിക്ലയർ ചെയ്യപ്പെടുന്നു എന്നല്ല ജാവ സി തുടങ്ങിയ ലാംഗ്വേജുകളിൽ പോലും നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ശൈലി ചെയ്യുമായിരുന്നു ഒരു ക്ലാസ് ടെംപ്ളേറ്റ് ഉണ്ടാകും തുടർന്ന് ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഡൈനാമിക് ആയി സൃഷ്ടിക്കും ട്രീ അല്ലെങ്കിൽ ലിസ്റ്റ് വളരുകയോ ചുരുങ്ങുകയോ ചെയ്താൽ നമ്മൾ കൂടുതൽ ഒബ്ജക്റ്റ് സൃഷ്ടിക്കും അല്ലെങ്കിൽ അവ നീക്കം ചെയ്യും അങ്ങനെ ഒരു ഡൈനാമിക് ഭാഗം അവിടെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകൾക്കും സ്റ്റാറ്റിക് ഭാഗം സാധാരണ ഡേറ്റാ ടൈപ്പുകൾക്കും ഉള്ളതാണ് നിങ്ങൾ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന അറേ പ്രത്യേകിച്ചും സാധാരണ ഡാറ്റ ടൈപ്പ് ആണ് നേരത്തേതന്നെ ഒരു പ്രത്യേക വലിപ്പം ഡാറ്റ ബ്ലോക്ക് വേണം എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറേ ഉപയോഗിക്കാം അവ ലിസ്റ്റുകളേക്കാൾ കൂടുതൽ കാര്യക്ഷമമായിരിക്കും സ്റ്റോറേജ് വിഹിതത്തിന്റെ ഒരു ഭാഗം അത് നേടുക എന്നതാണ് മറ്റേ ഭാഗം ഡി അലോക്കേഷൻ ആണ് അത് നൽകുന്നു പൈത്തണിൽ നിങ്ങൾക്ക് dell0 എന്ന് പറഞ്ഞു ലിസ്റ്റിൽ നിന്ന് ഒരു ഘടകം നീക്കംചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു പൊതുവേ നിങ്ങൾക്ക് ഏതെങ്കിലും പേരിന്റെ മൂല്യം dellx എന്ന് പറഞ്ഞ് അൺ അലോക്കേറ്റ് ചെയ്യാം ഇത് സ്റ്റോറേജ് ഉപേക്ഷിക്കുമോ നമ്മൾ ഡെൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എക്സ് മൂല്യം നിലവിൽ ഉപയോഗിക്കുന്ന സ്ഥലം ആവശ്യമില്ല എന്നാണ് ഇനി അപ്പോൾ ആ സ്ഥലത്തിന് എന്ത് സംഭവിക്കും ആരാണ് ഇത് പരിപാലിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ലിസ്റ്റ് ഉള്ളപ്പോൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമുക്ക് ഒരു കൂട്ടം കാര്യങ്ങളുള്ള ഒരു ലിസ്റ്റ് ഇല്ലാതാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റ് ഇല്ലാതാക്കാൻ നമ്മൾ അത് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കിയിട്ടില്ല പകരം നമ്മൾ അത് ബെപാസ്സ് ചെയ്തു നമ്മൾ പറഞ്ഞു ആദ്യ ഘടകം മൂന്നാമത്തേതിലേക്ക് പോയിന്റ് ചെയ്യുന്നു എന്ന് ഇപ്പോൾ യുക്തിപരമായി ഈ കാര്യം ഇനി എന്റെ ലിസ്റ്റിന്റെ ഭാഗമല്ല എന്നാൽ ഇത് എവിടെ പോയിരിക്കുന്നു അത് വേറെ എവിടെയെങ്കിലും പോയോ അതോ ഇപ്പോഴും മെമ്മറിയിൽ തന്നെ ഉണ്ടോ അവിടെ സ്ഥലം ബ്ലോക്ക് ചെയ്തോ നമ്മൾ del ഉപയോഗിച്ച് കളഞ്ഞ ഡെഡ് വാല്യൂസ് അല്ലെങ്കിൽ ലിങ്ക് മാറ്റികൊടുത്തു ബെപാസ്സ് ചെയ്ത ഒബ്ജക്റ്റിനുള്ളിലെ മൂല്യങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു പൈത്തൺ ലാംഗ്വേജിൽ അത് പോലെ ജാവ പോലുള്ള മറ്റ് ലാംഗ്വേജുകളിൽ ഇതൊന്നും തന്നെ വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല ഇതെല്ലാം സ്ഥലം എങ്ങനെ അനുവദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ഗാർബേജ് കളക്ഷൻ ഉപയോഗിക്കുന്നു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അർത്ഥത്തിൽ ഗാർബേജ് എന്നാൽ ഒരു തവണ അനുവദിച്ച മെമ്മറിയാണ് പക്ഷേ ഇത് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നില്ല അവ ഇനി ഉപയോഗപ്രദമല്ല കാരണം നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനാവില്ല അങ്ങനെ അത് ആ ലിസ്റ്റ് ഉദാഹരണം പോലെയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒരു ഘടകം ഉണ്ടായിരുന്നു അതിലേക്ക് ഹെഡ്ഡിൽ നിന്നും എത്താൻ കഴിയുമായിരുന്നു നമ്മൾ ഒരു ഘട്ടത്തിൽ അത് ഇല്ലാതാക്കി ഇപ്പോൾ നമുക്ക് ആ വാല്യൂ എത്താൻ കഴിയുന്നില്ല അത് വീണ്ടും ഉപയോഗിക്കാനാവില്ല കാരണം നമ്മൾ ആ മൂല്യം അലോക്കേറ്റ് ചെയ്തതായി ഡിക്ലയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് ഗാർബേജ് ആണ് ഏകദേശം പറഞ്ഞാൽ ഗാർബേജ് കളക്ഷൻ എങ്ങനെ പ്രവർത്തിക്കും ശരി നിങ്ങൾ ചെയ്യുന്നത് മെമ്മറി ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക തുടർന്ന് നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചില പേരുകൾ ഉണ്ട് n m x l എന്നിങ്ങനെയുള്ളവ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ട് ഈ കാര്യങ്ങൾ എവിടെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഇത് ഇവിടെ എവിടെയോ ആണ് ഇത് ഇവിടെ എവിടെയോ ആണ് ഇത് എവിടെയോ ആണ് ഇത് എവിടെയോ ആണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള പേരുകളിൽ നിന്ന് ആരംഭിക്കുക നിങ്ങൾ തുടരുക നിങ്ങൾ ഇത് അടയാളപ്പെടുത്തുന്നു ഇത് എന്റേതാണ് ഇത് എന്റേതാണ് ഇത് എന്റേതാണ് ഇത് എന്റേതാണ് ഇത് ഒരു ലിസ്റ്റ് ആകാം എൽ ഒരു ലിസ്റ്റ് ആണ് ഇത് ലിസ്റ്റിലെ അടുത്ത ഘടകത്തിലേക്ക് പോയിന്റ് ചെയ്യുന്നു അത് ഇവിടെ പോകുന്നു അങ്ങനെ ഇത് ഇവിടേയ്ക്ക് പോയിന്റ് ചെയ്യുന്നു ഇത് എന്റെ ആണ് പറയുന്നു അതു പേരുകൾ പോയിന്റുചെയ്യുന്നത് പ്ലസ് ആ വാല്യൂസ് പോയിന്റ് ചെയ്യുന്നത് എന്തോ അതും ആണ് നിങ്ങൾ ഇത് തുടർന്ന് കൊണ്ടേയിരിക്കുക അങ്ങിനെ ആ പേരിൽ നിന്നും എത്താൻ കഴിയുന്ന എല്ലാ മെമ്മറിയും അടയാളപ്പെടുത്തുക പ്രോഗ്രാമിലെ എല്ലാ പേരും പരോക്ഷമായി എത്താൻ കഴിയുന്ന എല്ലാ മെമ്മറിയും ഇപ്പോൾ ഞാൻ പോയി എല്ലാ അടയാളപ്പെടുത്താത്ത വസ്തുക്കളെയും ഉപയോഗമില്ലാത്തതായി കണക്കാകാം എനിക്ക് അവിടെ പോയി അവയെ എല്ലാം സ്വതന്ത്രമാക്കാം ഇത് രണ്ടാം ഘട്ടമാണ് നിങ്ങൾ അടയാളപ്പെടുത്താത്ത എല്ലാ മെമ്മറി ലൊക്കേഷനുകളും ശേഖരിച്ച് അവ ഫ്രീ ആക്കുന്നത് തുടരുക ഇപ്പോൾ ഇത് നിങ്ങളുടെ പ്രോഗ്രാമിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് യുക്തിസഹമായി പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രോഗ്രാം നിർത്തി മെമ്മറി അടയാളപ്പെടുത്തണം സ്ഥലം സ്വതന്ത്രമാക്കണം തുടർന്ന് നിങ്ങളുടെ പ്രോഗ്രാം പുനരാരംഭിക്കുക ഒരു ഓവർഹെഡ് ഉണ്ട് സി പോലുള്ള ചില ലാംഗ്വേജുകളിൽ ഈ ഗാർബേജ് കളക്ഷൻ ബിൽറ്റ് ഇൻ ആയി ഇല്ല സിയിൽ നിങ്ങൾക്ക് ഡൈനാമിക് മെമ്മറി ആവശ്യമുണ്ടെങ്കിൽഓർമ്മിക്കുക നിങ്ങൾ മുൻകൂട്ടി ഡിക്ലയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റിറ്റിക്കായി അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്ക് അവ പഴയപടിയാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാൻ കഴിയില്ല അവ ആവശ്യമില്ല എന്ന് എന്നാൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ വിപുലീകരിക്കാനും ചുരുക്കാനും കഴിയുന്ന ഒരു ട്രീ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോഡ് സൂക്ഷിക്കാൻ ഉള്ള മെമ്മറി വേണം എന്ന് പറയുന്നു അതിൽ മൂല്യം ചേർക്കുന്നു അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു എങ്കിൽ ഒരു പ്രോഗ്രാമർ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് കുറച്ചു മുൻപ് നൽകിയതാണ് ഇപ്പോൾ അത് തിരിച്ചെടുക്കു എന്ന് പറയേണ്ടത് നിങ്ങൾ ഒരു പ്രോഗ്രാമർ എന്ന നിലയിൽ ഡൈനാമിക് മെമ്മറി ആവശ്യപ്പെടണം അതിലും പ്രധാനമായി നിങ്ങൾ ഇത് ഉപയോഗിക്കാത്തപ്പോൾ അത് തിരികെ നൽകുക സി ക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമർ നയിക്കുന്ന മാനുവൽ മെമ്മറി അലോക്കേഷൻ ഉണ്ട് ഇത് തികച്ചും പിശകുള്ളതാണ് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതുപോലെ ഒരു പ്രോഗ്രാമർ ഒരു ലിസ്റ്റിലോ ട്രീയിലോ ലളിതമായ ഡിലീറ്റ് പ്രവർത്തനം എഴുതുന്നു പിന്നീട് മെമ്മറി തിരികെ നൽകാൻ മറന്നുപോയി ഇപ്പോൾ അത്തരം പ്രോഗ്രാമിൽ ഓരോ തവണ ലിസ്റ്റിലോ ട്രീയിലോ എന്തെങ്കിലും ചേർക്കുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്താൽ ആ കാര്യം മെമ്മറിയിൽ തന്നെ ഉണ്ടാകും എന്നാൽ യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നില്ല അങ്ങനെ പോകെപ്പോകെ ഈ കാര്യം വളർന്നു കൊണ്ടിരിക്കും നിങ്ങൾ മറുവശം എടുത്തു നോക്കിയാൽ അവിടെ സ്വതന്ത്ര മെമ്മറി ഒരു ദ്രാവകം പോലെയാണ് അത് കുറഞ്ഞു വരുന്നു ഇതിനെ മെമ്മറി ലീക്ക് എന്ന് വിളിക്കുന്നു നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് മെമ്മറി ചോർന്നൊലിക്കുന്നു അത് ശരിക്കും ചോർന്നില്ല അത് നിറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇതാണ് പദാവലി നിങ്ങൾ ഏതെങ്കിലും വാചകത്തിൽ എവിടെയെങ്കിലും കണ്ടേക്കാം മെമ്മറി ലീക്ക് എന്ന വാക്ക് ഒരു പ്രോഗ്രാം മെമ്മറി ശരിയായി വകയിരുത്തി എന്നാൽ അത് ഉപയോഗത്തിൽ ഇല്ലാതിരുന്നപ്പോൾ ശരിയായി ഡീ അലോക്കേറ്റ് ചെയ്തില്ല ഇതിന്റെ ലക്ഷണം ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും അത് കൂടുതൽ കൂടുതൽ മെമ്മറി എടുക്കും പ്രോഗ്രാം കൂടുതൽ മന്ദീഭവിക്കും പ്രകടനം മോശമാകും സമയം കൂടുതലാകും സ്പേസ് ചുരുങ്ങുകയും ചെയ്യും ഫലത്തിൽ എല്ലാ ആധുനിക ലാംഗ്വേജുകളും ഗാർബേജ് കളക്ഷൻ ഉപയോഗിക്കുന്നു കാരണം അത് വളരെ ലളിതമാണ് അവിടെ ഒരു റൺടൈം ഓവർഹെഡ് ഉണ്ട് എങ്കിലും ഈ മാർക്ക് റിലീസ് മെക്കാനിസത്തിനു ഗുണങ്ങളുമുണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് വേവലാതിപ്പെടാതെ പ്രോഗ്രാമറെ മാത്രം ആശ്രയിക്കാതെ മെമ്മറി ലീക്ക് ഒഴിവാക്കുമെന്ന് ഉറപ്പിക്കാം പ്രോഗ്രാമറുടെ ബോധത്തെ ആശ്രയിക്കുന്നതിനു പകരം അനുവദിച്ച എല്ലാ മെമ്മറിയും യഥാർത്ഥത്തിൽ ഡി അലോക്കേറ്റഡ് ആണെന്ന് ഉറപ്പാക്കുന്നതിന് ഗാർബേജ് കളക്ഷൻ ശരിയായി പ്രവർത്തിക്കുന്നു എന്ന് പറയാം ഈ അവസാന പ്രഭാഷണത്തിന്റെ അവസാന പോയിന്റിനായി നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള പ്രോഗ്രാമിംഗ് നോക്കാം അതിനെ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നു പൈത്തണും നമ്മൾ സംസാരിച്ച മറ്റ് ലാംഗ്വേജുകളും വിവിധോദ്ദേശ്യ ഇമ്പരെറ്റിവ് പ്രോഗ്രാമിങ് ലാംഗ്വേജുകൾ ആകുന്നു ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കാര്യങ്ങൾ കണക്കുകൂട്ടാൻ നിങ്ങൾ ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയ നൽകുന്നു ഇന്റർമീഡിയറ്റ് മൂല്യങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ നിങ്ങൾ പേരുകൾ നൽകുന്നു നിങ്ങൾ ലിസ്റ്റുകളിൽ കാര്യങ്ങൾ ഇടുകയും തുടർന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി മെക്കാനിക്കൽ കണക്കുകൂട്ടൽ നടത്തണം നമ്മൾ ഏകദേശം നിർദ്ദേശങ്ങളുടെ ഒരു ശ്രേണി അനുകരിക്കേണ്ടതുണ്ട് എന്തെങ്കിലും നടപ്പിലാക്കുന്നതിനു മുൻപ് അതിനു വേണ്ട മെക്കാനിക്കൽ പ്രോസസ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ മുൻപ് കണ്ട ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് നേരിട്ട് എടുക്കാൻ ശ്രമിക്കുകയും അവയെ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് നിഗമനത്തിലെത്തേണ്ട വിധത്തിൽ ഇവിടെ ഒരു സാധാരണ ഡിക്ലറേഷൻ കൊണ്ട് ഇൻഡക്റ്റീവ് ഫംഗ്ഷനുകൾ നിങ്ങൾ നേരിട്ട് വ്യക്തമാക്കും ഉദാഹരണത്തിന് ഇതൊരു ഹാസ്കൽ ശൈലി ഡിക്ലറേഷൻ ആണ് ഈ ഡബിൾ കോളൻ ഉള്ള ആദ്യ വരി ഈ ഫാക്റ്റോറിയൽ ഒരു ഫങ്ഷൻ ആണെന്ന് പറയുന്നു അതിന്റെ ടൈപ്പ് ഇതാണ് അത് ഇന്റീജർ ഇൻപുട്ട് ആയി എടുത്ത് ഒരു ഇന്റീജർ ഔട്ട്പുട്ട് നൽകുന്നു ഫാക്റ്റോറിയൽ ഇതുപോലെയുള്ള ഒരു ബോക്സാണെന്ന് ഇത് പറയുന്നു അതു ints എടുത്ത് ints നൽകുന്നു നിങ്ങൾക്ക് ഇതുണ്ട് എന്നിട്ട് ഇത് കണക്കുകൂട്ടുന്നതിനുള്ള നിയമം നൽകുന്നു ഇത് പറയുന്നു ഫാക്റ്റോറിയൽ ഓഫ് 0 1 ആണ് പിന്നീട് നിയമങ്ങൾ ക്രമത്തിൽ പ്രോസസ്സുചെയ്തു രണ്ടാം നിയമം ഇവിടെ n 0 അല്ല എന്ന് പറയുന്നു ഈ സമയത്ത് N 0 അല്ല എങ്കിൽ n ടൈംസ് ഫാക്റ്റോറിയൽ n മൈനസ് 1 എന്നാണ് ഉത്തരം ഹാസ്കേൽ ചെയ്യുന്നത് ശരിക്കും തിരുത്തിയെഴുതുകയാണ് നമ്മൾ അതിലേക്ക് കടക്കില്ല പക്ഷേ പ്രധാന കാര്യം ഇവിടെ ഇന്റർമീഡിയറ്റ് പേരുകളെക്കുറിച്ച് പരാമർശമില്ല എന്നതാണ് ഇത് ഫംഗ്ഷനിലേക്ക് കൈമാറിയ പരാമീറ്ററുകൾ എടുക്കുകയും ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ റീകീഴ്സീവ് കോളുകൾ എടുത്തു അവ എങ്ങനെ സംയോജിപ്പിക്കാം എന്നതുമാണ് ചെയ്യുക ഇവിടെ മറ്റൊരു ഉദാഹരണം ഉണ്ട് നിങ്ങൾക്ക് ഒരു ലിസ്റ്റിലെക്ക് ഘടകങ്ങൾ ചേർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് ഒരു ഹാസ്കേൽ ടൈപ്പ് ലിസ്റ്റ് ആണ് പൂർണ്ണസംഖ്യകളുടെ ഒരു ലിസ്റ്റ് ഇത് പൂർണ്ണസംഖ്യകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് ഒരു ഇന്റീജർ തരുന്നു ഇവിടെ ശൂന്യമായ ഒരു ലിസ്റ്റിന്റെ സം 0 ആണെന്നും വീണ്ടും ഇവിടെ വരുമ്പോൾ സം 0 അല്ല എന്നും നിങ്ങൾ പറയും കാരണം നമ്മൾ ക്രമത്തിൽ പോകുന്നതിനാൽ ഇവിടെ വന്നാൽ ഇത് ശൂന്യമല്ല ആദ്യ ലിസ്റ്റ് പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ രണ്ടാമത്തെ ലിസ്റ്റ് ശൂന്യമാകില്ല പിന്നെ ഇതിൽ ഫങ്ഷൻസ് ഹെഡ് ടെയിൽ എന്നിവ ഉണ്ട് അത് ആദ്യ ഘടകം അല്ലെങ്കിൽ അവസാന ഘടകത്തെ എടുക്കാൻ ആണ് നിങ്ങൾക്ക് ശൂന്യമല്ലാത്ത ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഘടകം എടുത്ത് ബാക്കി കണക്കുകൂട്ടുന്നതിന്റെ ഇൻഡക്റ്റീവ് ഫലം അതിന്റെ കൂടെ ഇൻഡക്റ്റീവ് ആയി ചേർത്താണ് തുക നൽകുന്നത് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിംഗ് രീതിയാണ് ഇതിനെ ഡിക്ലറേറ്റീവ് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ഇത് നോക്കാൻ കഴിയും ഇത് വളരെ ഗംഭീരമാണ് ഇതിന് അതിന്റേതായ ഉപയോഗങ്ങളും സവിശേഷതകളും ഉണ്ട് പൈത്തൺ അതിന്റെ ചില മികച്ച സവിശേഷതകൾ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് നിന്ന് കടമെടുത്തതാണ് പ്രത്യേകിച്ചും കണ്ടതു മാപ്പ് ഫിൽട്ടർ ഉപയോഗം ആണ് പൊതുവായിട്ടുള്ള മറ്റൊന്ന് ഫങ്ഷൻസ് മറ്റൊന്നിലേക്ക് പാസ് ചെയ്യുന്ന ആശയം ആണ് ഇതെല്ലാം സ്വാഭാവികമായും ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിൽ നിന്ന് വരുന്നു മാപ്പ് ഫിൽട്ടർ ഒരു ഫങ്ങ്ഷൻ എടുത്തു അത് ലിസ്റ്റിലെ എല്ലാ ഘടകത്തിലും പ്രയോഗിക്കാൻ അനുവദിക്കുന്നു തൽഫലമായുണ്ടാകന്ന ലിസ്റ്റ് എഴുതാൻ ഉള്ള വളരെ ഒതുക്കമുള്ള വഴി ഒരു വരിയിൽ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എഴുതി അത് മാപ്പ് ഫിൽട്ടർ വച്ച് യോജിപ്പിക്കുന്ന രീതിയാണ് പൈത്തണിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്ന ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗിന്റെ സവിശേഷതകളാണിത് അവസാനമായി ഒരിക്കലും ഒരു പ്രോഗ്രാമിങ് ലാംഗ്വേജ് ആണ് മികച്ച പ്രോഗ്രാമിങ് ലാംഗ്വേജ് എന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു മികച്ച പ്രോഗ്രാമിങ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ വ്യക്തമായും എല്ലാവരും തന്നെ ആ ലാംഗ്വേജ് ഉപയോഗിക്കുമായിരുന്നു ചുറ്റും ധാരാളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ടെന്നതിൽ നിന്ന് തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മറ്റെല്ലാതിനേക്കാളും സാർവത്രികമായി മികച്ചതല്ല എന്നത് വ്യക്തമാണ് അപ്പോൾ എന്താണ് ചെയ്യണ്ടത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ലാംഗ്വേജ് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ പ്രോഗ്രാമിംഗും ഡാറ്റ സ്ട്രക്ച്ചർ അൽഗോരിതം എന്നിങ്ങനെ പ്രോഗ്രാമിംഗിന്റെ വിവിധ വശങ്ങളും പഠിക്കാൻ ശ്രമിച്ചു എന്നാൽ പൈത്തൺ തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലളിതമായ ലാംഗ്വേജ് ആണ് അതിലെ ബിൽറ്റ് ഇൻ കാര്യങ്ങൾ ആയ ഡിക്ഷ്ണറി പോലുള്ളവ സൌകര്യപ്രദമായ പ്രയോഗം എന്നിവയൊക്കെ പഠനം എളുപ്പമാക്കുന്നു എന്നാൽ അതിനെ വളരെ ആകർഷകമാക്കുന്ന കാര്യങ്ങൾ തന്നെ അതായത് ഡിക്ലറേഷൻസിന്റെ അഭാവം പോലെയുള്ളത് പൈത്തണിന്റെ ആവിഷ്കാരത്തെ പരിമിതപ്പെടുത്തുന്നു അതിന്റെ ഇമ്പ്ലിമെന്റേഷൻ ഒബ്ജെക്ട്സ് എന്നിവയുടെ സ്വകാര്യതയുടെ കാര്യത്തിൽ അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല ഇവിടെ സന്ദേശം എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ടാസ്ക് ഉള്ളപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും അനുയോജ്യമായ ലാംഗ്വേജിനായി നിങ്ങളുടെ ചുറ്റും നോക്കുക ആ ടാസ്കിന്റെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പഠിക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത് കാരണം നിങ്ങൾ ഒരിക്കൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചുകഴിഞ്ഞാൽ അവ തമ്മിൽ യഥാർത്ഥത്തിൽ അത്ര വലിയ വ്യത്യാസമില്ല ഇത് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് എന്ന് മനസിലാകും തീർച്ചയായും ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗ് പോലുള്ള വ്യത്യസ്ത ശൈലികൾ വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ധാരണ ഉണ്ടെങ്കിൽ റഫറൻസ് മാനുവൽ നോക്കി അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്ത് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഏകദേശം മാറ്റാൻ കഴിയും തീർച്ചയായും നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദീർഘനേരം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്നായി പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ലാംഗ്വേജിനെ മറ്റൊരു ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാനാകും പ്രധാന സന്ദേശം നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് വിവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് പഠിക്കുക ആദ്യം നല്ല അൽഗോരിതങ്ങൾ കൊണ്ട് വരുന്നു അൽഗോരിതങ്ങളെ ഫലപ്രദമായ ഇമ്പ്ലിമെന്റേഷൻ ആക്കി എങ്ങനെ മാറ്റാം എന്തൊക്കെയാണ് നല്ല ഡേറ്റാസ്ട്രക്ച്ചറുകൾ ഇതൊക്കെ പഠിക്കണം നിങ്ങളുടെ ഫോക്കസ് ആൽഗരിതങ്ങൾ ഡേറ്റാസ്ട്രക്ച്ചറുകൾ നിർദ്ദേശങ്ങൾ എഴുതുന്ന മികച്ച ശൈലി എന്നിവയൊക്കെ ആയിരിക്കണം അതിനു ശേഷം മാത്രം നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു പ്രോഗ്രാമിങ് ലാംഗ്വേജ് മാത്രം ഇരുന്നു പഠിക്കുന്നത് തെറ്റായ രീതിയാണ് ആരും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നില്ല നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സവിശേഷതകൾ പഠിക്കുകയും അവ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നല്ല പ്രോഗ്രാമുകൾ ഉണ്ടാകുന്നു ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം നിങ്ങൾക്ക് പ്രോഗ്രാമിംഗിൽ ഒരു ഫലപ്രദമായ കരിയർ ഉണ്ടാകട്ടെയെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു